സുപ്രഭാതം ഇത് NPTEL പ്രോഗ്രാമിൻറെ ഭാഗമായി ഐഐടി ഖരക്പൂരിൽ റെക്കോർഡ് ചെയ്ത ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ കോഴ്സ് ആണ് ഞാൻ ഐഐടി ഖരക്പൂർ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് വിഭാഗത്തിലെ സിദ്ധാർത്ഥ മുഖോപാധ്യായ നാമിന്ന് ഒന്നാം അധ്യായം ആണ് കാണാൻ പോകുന്നത് ഞാൻ പ്രെസൻറ്റേഷൻ ആരംഭിക്കട്ടെ ഇത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ കോഴ്സ് ആണ് ഒന്നാം അധ്യായമായ ആമുഖം ആരംഭിക്കാൻ പോവുകയാണ് ആദ്യമായി നമുക്ക് കോഴ്സിൻറെയും വിഷയത്തിൻറെയും ആമുഖം മനസ്സിലാക്കാം അതിനുശേഷം വ്യവസായത്തിൽ ഓട്ടോമേഷൻ സിസ്റ്റത്തിൻറെ പങ്ക് ഇത് ഫാക്ടറിയെ എങ്ങനെ ബാധിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഗുണപരമായി കരുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് എല്ലാത്തരം ഫാക്ടറികളിലും ഇത്ര വ്യാപകമായി കാണപ്പെടുന്നത് വരുമാനം വർദ്ധിപ്പിക്കാൻ ഇത് എങ്ങനെ സഹായിക്കുന്നു വിവിധതരം ഫാക്ടറികളും ഓട്ടോമേഷൻ സിസ്റ്റംസ്സും എന്തൊക്കെയാണ് ഓരോതരം ഫാക്ടറിക്കും അനുയോജ്യമായ ഓട്ടോമേഷൻ സിസ്റ്റം ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാം പാഠ്യ ഭാഗത്തേക്ക് കടക്കുന്നതിനു മുൻപ് പ്രബോധന ലക്ഷ്യങ്ങൾ അതായത് ഈ പഠനം വിദ്യാർത്ഥിയെ എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രാപ്തനാക്കുന്നു എന്നു നോക്കാം ഈ പഠനത്തിനു ശേഷം വിദ്യാർത്ഥിക്ക് ഈ കോഴ്സിൻറെ വ്യാപ്തിയും പ്രകൃതവും വിശദീകരിക്കാൻ സാധിക്കും അതായത് ഈ കോഴ്സിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്തുതരം കോഴ്സാണിത് മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്താണെന്ന് നിർവചിക്കാനും ഓട്ടോമേഷനെ കൺട്രോളും ആയി താരതമ്യം ചെയ്യാനും വിദ്യാർത്ഥിക്ക് സാധിക്കും ഈ കോഴ്സിൽ രണ്ടു പദങ്ങളുണ്ട് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയൽ കൺട്രോൾ വിദ്യാർത്ഥിക്ക് അ ഈ രണ്ട് പദങ്ങളുടെയും സാമ്യങ്ങളും വ്യത്യാസങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ഓട്ടോമേഷന് വ്യവസായത്തിൽ ഉള്ള പ്രമുഖസ്ഥാനം എന്താണെന്ന് വിശദീകരിക്കാൻ വിദ്യാർത്ഥിക്ക് സാധിക്കും എക്കണോമിസ് ഓഫ് സ്കോപ്പ് എക്കണോമിസ് ഓഫ് സ്കെയിൽ എന്നീ പദങ്ങൾ ബന്ധപ്പെടുത്താനും ഓട്ടോമേഷൻ ഇവയെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാനും വിദ്യാർഥിക്കു സാധിക്കും വിവിധതരം വ്യവസായങ്ങളെ തരംതിരിക്കാനും ഓരോ വ്യവസായത്തിനും അനുയോജ്യമായ ഓട്ടോമേഷൻ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനും സാധിക്കും അവസാനമായി മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവരിക്കാൻ ആവശ്യമായ വ്യാവസായിക ഉദാഹരണങ്ങൾ നൽകാനും വിദ്യാർത്ഥിക്ക് സാധിക്കും ഇക്കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥിക്ക് ചെയ്യാൻ സാധിക്കും ആദ്യമായി നമുക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന പദം നിർവചിക്കാം എൻറെ അനുഭവത്തിൽ ഒരു പദം നിർവക്കുന്നതിന് ഒരു നല്ല നിഘണ്ടു ഉപയോഗിച്ച് പദത്തിലെ ഓരോ വാക്കിൻറെയും അർഥം മനസ്സിലാക്കുന്നത് വളരെ സഹായകരമാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന പദത്തിൻറെ ശബ്ദോല്പത്തി മനസ്സിലാക്കാം ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് വിശാലമായ തലത്തിൽ ഇൻഡസ്ട്രി എന്നാൽ ചിട്ടയായ സാമ്പത്തിക വ്യവഹാരം എന്നാണ് അർത്ഥമാക്കുന്നത് സാമ്പത്തിക വ്യവഹാരത്തെ ഉത്പാദനം സേവനം വാണിജ്യം ഇവയിൽ ഏതുമായും ബന്ധപ്പെടാവുന്നതാണ് ഈ കോഴ്സ് മുഖ്യമായും ഉത്പാദനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് നാം പ്രധാനമായും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെകുറിച്ചാകും സംസാരിക്കുക അടുത്തതായി ഓട്ടോമേഷൻ എന്ന പദത്തിൻറെ അർത്ഥം എന്താണ് എന്ന് നോക്കാം ഓട്ടോമേഷൻ എന്ന പദം ഓട്ടോ മാട്ടൂസ് എന്നീ രണ്ടു പദങ്ങളിൽ നിന്നാണ് ആണ് ഉൽഭവിച്ചിരിക്കുന്നത് ഓട്ടോ എന്നാൽ എന്നാൽ സ്വയം എന്നും മാട്ടൂസ് എന്നാൽ ചലിക്കുന്ന എന്നുമാണ് അർത്ഥം അതുകൊണ്ട്ഓട്ടോമേഷൻ എന്നാൽ സ്വയം ചലിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു വസ്തു എന്നാണ് അർത്ഥം ഇതാണ് ഓട്ടോമേഷൻ എന്ന വാക്കിൻറെ കാതൽ ഇതിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻറെ നിർവചനം നമുക്ക് മനസ്സിലാക്കാം കാര്യമായ മാനുഷിക ഇടപെടലുകൾ ഇല്ലാതെ ഇൻഡസ്ട്രിയൽ മെഷീനുകളും സിസ്റ്റംസും പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരുപറ്റം സാങ്കേതികവിദ്യകളെ ആണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്നു വിളിക്കുന്നത് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് സ്വയം ചലനം എന്ന വാക്കിൻറെ അർത്ഥമാണ് അതായത് വിദഗ്ധ ഇടപെടലുകൾ അധികമായി ആവശ്യമില്ല ഇതുകൂടാതെ കായികമായ പ്രവർത്തനത്തെക്കാളും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു ഓട്ടോമേറ്റഡ് മെഷീന് ഒരിക്കലും മടുപ്പ് ഉണ്ടാവുകയോ തളർച്ച മൂലം പിശകുകൾ വരുത്തുകയോ ചെയ്യുന്നില്ല ഇത് ഓരോ തവണയും ചെയ്യേണ്ട പ്രവർത്തി ഒരേ ഗുണനിലവാരതോടെ ചെയ്യുന്നു അതുമാത്രമല്ല മനുഷ്യസാധ്യമല്ലാത്ത വലിയ പ്രവർത്തികളും ഇതിന് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഈ അർത്ഥത്തിൽ കായിക പ്രവർത്തിയെക്കാൾ മികച്ച പ്രവർത്തനം കൈവരിക്കാൻ ഓട്ടോമേഷന് സാധിക്കും ഇതാണ് ഓട്ടോമേഷൻ എന്ന പദത്തിൻറെ നിർവചനം ഇനി നമുക്ക് കോഴ്സ്ൻറെ ഉദ്ദേശ്യവും പ്രകൃതവും എന്താണെന്ന് നോക്കാം ഈ കോഴ്സിൻറെ അടിസ്ഥാനപരമായ ഉദ്ദേശ്യം വിദ്യാർത്ഥിക്ക് ആധുനിക ഇൻഡസ്ട്രിയൽ മെഷീനുകളുടെയും സിസ്റ്റംസ്ൻറെയും പ്രവർത്തനം നിയന്ത്രണം എന്നിവയെപ്പറ്റിയുള്ള സാങ്കേതികമായ അറിവു നൽകുക എന്നതാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളൊരു ഫാക്ടറിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പലതരം മെഷീനുകൾ ഉദാഹരണത്തിന് സെൻസർസ് കൺട്രോളർ ആക്ച്ചുയേറ്റർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മനുഷ്യൻറെയും മെഷീൻറെയും ഇടയിലുള്ള ഇൻറർഫേസ് മുതലായവ അഭിമുഖീകരിച്ചു എന്നിരിക്കും അതുകൊണ്ട് വിദ്യാർത്ഥിക്ക് സ്വാഭാവികമായി ഒരു വ്യവസായ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുന്ന സാങ്കേതികവിദ്യകളെകുറിച്ച് കുറച്ചെങ്കിലും ധാരണ ഉണ്ടായിരിക്കുക എന്നതാണ് ഇവിടുത്തെ ആശയം ഇത് ഓർമ്മയിൽ വച്ചുകൊണ്ട് കോഴ്സിൻറെ പ്രകൃതം എന്താണെന്ന് ചർച്ച ചെയ്യാം ആദ്യമായി നാം ഉപഭോക്താവിൻറെ കാഴ്ചപ്പാടാണ് നൽകുന്നത് എപ്പോഴെങ്കിലും നിങ്ങളൊരു സാങ്കേതികവിദ്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഉപഭോക്താവിനെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ നോക്കിക്കാണാം കാര്യങ്ങളെ എങ്ങനെ സംയോജിപ്പിക്കാം പ്രവർത്തനങ്ങളുടെ സ്വഭാവം എന്ത് തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം ഈ കാഴ്ചപ്പാടാണ് നാമിവിടെ സ്വീകരിക്കാൻ പോകുന്നത് ഇതിനെതിരായി ഒരു ഡിസൈനറുടെ കാഴ്ചപ്പാടിൽ നോക്കികണ്ടാൽ ഒരു സാങ്കേതിക വിദ്യ എങ്ങനെ ഡിസൈൻ ചെയ്യാനും നിർമ്മിക്കാനും സാധിക്കും എന്നു മനസ്സിലാക്കാൻ സാധിക്കും ഇത് കുറച്ചുകൂടി സങ്കീർണമായ കർത്തവ്യമാണ് ഈ കോഴ്സിൽ നാം ഇതിനു ശ്രമിക്കുന്നില്ല കൂടുതൽ സമയവും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഉപയോഗത്തിൽ ആണ് അതുകൊണ്ട് നാം കണ്ട്രോൾനെപറ്റി ചർച്ച ചെയ്യുമ്പോൾ പ്ലാൻറ് എന്നു വിളിക്കുന്ന അബ്സ്ട്രാക്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻനെകുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നേരെ മറിച്ച് നാം ഫംഗ്ഷൻനെകുറിച്ച് ആണ് ചർച്ച ചെയ്യുന്നത് പക്ഷേ നാം എല്ലായ്പ്പോഴും ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് കാണിക്കുന്നത് എന്താണ് ഫിസിക്കൽ ഒബ്ജക്റ്റ് ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് വാസ്തവത്തിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന സന്ദർഭം എല്ലാ ചർച്ചകളിലും ഉണ്ടായിരിക്കുന്നതാണ് മറ്റൊരു കാര്യം നാം മുഖ്യമായും ഇപ്പോൾ നിലനിൽക്കുന്ന സാങ്കേതികവിദ്യകളെകുറിച്ചുള്ള അടിസ്ഥാനപരമായ ധാരണ നൽകുകയാണ് ചെയ്യുന്നത് ഇതുതന്നെ വളരെ വിപുലമാണ് ചിലപ്പോൾ ചില പ്രവണതകളും നാം ചർച്ച ചെയ്യുന്നതാണ് പക്ഷേ നാം പ്രവണതകളിലേക്ക്ഉം ഗവേഷണത്തിലേക്ക്ഉം അധികം പോകുന്നില്ല അവസാനമായി നാം ഇൻറർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ചർച്ച ആരംഭിക്കുകയാണ് അതുകൊണ്ട് ഇത് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങും മാത്രമല്ല കെമിക്കൽ എൻജിനീയറിങ് മെക്കാനിക്കൽ എൻജിനീയറിങ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിങ് എന്നീ മേഖലകളെകൂടി ഉൾക്കൊള്ളിക്കുന്ന പഠനം ആയിരിക്കും ഇത്രയുമാണ് ആണ് ഈ കോഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഇത് വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് ഓട്ടോമേഷൻ ഇൻഡസ്ട്രിയുടെ കർത്തവ്യം എന്താണെന്ന് നോക്കാം ഇതു മനസ്സിലാക്കുക വളരെ പ്രധാനമാണ് കാരണം ഇതിൽ ഈ ഭാഗത്ത് മാത്രമായിരിക്കും നാം പലതരം സാങ്കേതികവിദ്യകളെ കുറിച്ചും എങ്ങനെ ഈ സാങ്കേതികവിദ്യകൾ സാമ്പത്തികമായി വളരെ ഉപയോഗപ്രദമായ ഫലം നൽകുന്നു എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുക ഓട്ടോമേഷൻ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഒരു ഫാക്ടറി എന്തുചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം ഫാക്ടറി ആരംഭിക്കുന്നത് അസംസ്കൃതവസ്തുക്കൾ കൊണ്ടാണ് ഉദാഹരണത്തിന് ഇരുമ്പുരുക്ക് ഫാക്ടറിയുടെ അസംസ്കൃതവസ്തു ഇരുമ്പയിര് ആണ് ഫാക്ടറിയിൽ നിന്നും പൂർത്തീകരിച്ച് ഉൽപ്പന്നം ഉൽപാദിപ്പിക്കപ്പെടുന്നു ഈ ഉദാഹരണത്തിൽ ഉൽപ്പന്നം സ്റ്റീൽ ആണ് നേരെമറിച്ച് പൂർത്തീകരിക്കാത്ത വസ്തുക്കൾ വച്ചു ഉൽപാദനം ആരംഭിക്കാവുന്നതാണ് ഒരു കാർ നിർമ്മിക്കുമ്പോൾ മറ്റു ഫാക്ടറികളിൽ നിർമ്മിച്ച അനേകം വസ്തുക്കൾ കൂട്ടിയോജിപ്പിച്ച് ആണ് ഉത്പാദനം സാധ്യമാകുന്നത് അതുകൊണ്ട് പൂർത്തീകരിച്ച ഉൽപ്പന്നം നിർമ്മിക്കാൻ അസംസ്കൃതവസ്തുക്കളിൽനിന്നോ പൂർത്തീകരിക്കാത്ത മറ്റു വസ്തുക്കളിൽനിന്നോ നിർമ്മാണം ആരംഭിക്കാവുന്നതാണ് ഇതാണ് ഏതൊരു ഫാക്ടറിയുടെയും അടിസ്ഥാനപരമായ ധർമ്മം ഇതിനായി ഊർജ്ജം മനുഷ്യാധ്വാനം അടിസ്ഥാന സൌകര്യങ്ങൾ ഭൂമി ഉപകരണങ്ങൾ വെള്ളം വൈദ്യുതി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതിനാൽ ഈ സൌകര്യങ്ങളെല്ലാം ഊർജ്ജം മനുഷ്യാധ്വാനം അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഇവ ഉപയോഗിച്ച് ഒരു നിർമ്മാണ പ്രക്രിയയിലൂടെ അസംസ്കൃതവസ്തുക്കളെയോ പൂർത്തീകരിക്കാത്ത മറ്റു വസ്തുക്കളെയോ ഉപയോഗിച്ച് ഉൽപന്നമായി മാറ്റാവുന്നതാണ് ഇതാണ് ഫാക്ടറിയുടെ അടിസ്ഥാന ധർമ്മം ഇനി ഫാക്ടറിയുടെ അടിസ്ഥാന ലക്ഷ്യമെന്താണ് അടിസ്ഥാനപരമായ സാമ്പത്തിക ലക്ഷ്യം എന്താണ് ലാഭം ഉണ്ടാക്കുക തന്നെയാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം നമുക്ക് ലാഭത്തെ ബാധിക്കുന്നത് എന്താണെന്ന് നോക്കാം ഓട്ടോമേഷൻ ലാഭത്തിൻറെ എല്ലാ വശങ്ങളെയും ബാധിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനാലാണ് ഒരു വ്യവസായത്തിൻറെ വിജയത്തിൽ ഇത് ഇത്രയും ഇത് നിർണായകമാകുന്നത് ഇത് ഊന്നി പറയാൻ നമുക്കൊരു ലളിതമായ സമവാക്യം ആദ്യം നിർവചിക്കാം പ്രൈസ് പർ യൂണിറ്റ് മൈനസ് കോസ്റ്റ് പർ യൂണിറ്റ് ഇൻറു പ്രൊഡക്ഷൻ വോളിയം ആണ് പ്രോഫിറ്റ് അതായത് ഒരു യൂണിറ്റ് ഉൽപ്പന്നത്തിൻറെ വില അല്ലെങ്കിൽ നിരക്കിൽ നിന്നും ഒരു യൂണിറ്റ് ഉൽപ്പന്നത്തിൻറെ മുതൽമുടക്ക് അല്ലെങ്കിൽ നിർമാണച്ചെലവ് കുറയ്ക്കുക ഇതിനെ പ്രൊഡക്ഷൻ വോളിയം അല്ലെങ്കിൽ നിർമിച്ച അളവ്കൊണ്ട് ഗുണിക്കുക ലഭിക്കുന്ന ഉത്തരം ആണ് ആണ് പ്രോഫിറ്റ് അഥവാ ലാഭം ഇവിടെ നാം നിർമ്മിക്കുന്നത് എല്ലാം വിൽക്കാൻ ആകും എന്നാണ് നാം അനുമാനിക്കുന്നത് ഈ ലളിതമായ സമവാക്യത്തിൽ നിന്നും എങ്ങനെയാണ് ലാഭം കൂട്ടുക എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നമുക്ക് ചിലവ്കുറയ്ക്കാൻ കഴിഞ്ഞാൽ ലാഭം വർധിപ്പിക്കാൻ സാധിക്കും അതേപോലെ വിപണി വളരെ വലുതാണെന്ന് അനുമാനിച്ചു ഉൽപാദനത്തിൻറെ അളവ് വർദ്ധിപ്പിച്ചാൽ അവ വിൽക്കാനും ലാഭം വർധിപ്പിക്കാനും സാധിക്കും അതേസമയം ഒരു ഉൽപ്പന്നം കൂടിയ നിരക്കിൽ വിൽക്കാൻ സാധിച്ചാലും നിങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കാം ഇനി നമുക്ക് ഓട്ടോമേഷൻ എങ്ങനെ മൂല്യം കുറയ്ക്കാനും ഉത്പാദനത്തിൻറെ അളവ് വർദ്ധിപ്പിക്കാനും ചിലപ്പോഴൊക്കെ നിരക്ക് വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് നോക്കാം നമുക്ക് കോസ്റ്റ് പർ യൂണിറ്റ് അതായത് ഒരു യൂണിറ്റിൻറെ മുതൽമുടക്ക് എന്താണെന്ന് ആദ്യം നോക്കാം കോസ്റ്റ് പർ യൂണിറ്റ്നെ എന്തൊക്കെയാണ് ബാധിക്കുക എന്ന് നോക്കാം ഇതിനെ പല ഘടകങ്ങളായി വിഭജിക്കാം ഉൽപ്പന്നത്തിൻറെ ഒരു യൂണിറ്റ് നിർമ്മിക്കാനുള്ള മുതൽമുടക്കിനെ പല ഘടകങ്ങളായി വിഭജിക്കാം ഇതിൽ ആദ്യത്തേത് മെറ്റീരിയൽ കോസ്റ്റ് ആണ് തീർച്ചയായും മെറ്റീരിയൽ കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ടാമത്തേത് എനർജി കോസ്റ്റ് ആണ് എനർജി ഇന്ന് ചെലവേറിയത് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് എനർജി കോസ്റ്റ് കൊണ്ട് മാത്രമല്ല എനർജിയുമായി ബന്ധപ്പെട്ട മറ്റു കോസ്റ്റ്സു കൊണ്ടു കൂടിയാണ് ഉദാഹരണത്തിന് മലിനീകരണ നിരോധനം ശുദ്ധമായ എനർജി നിർമ്മിക്കുന്നതിനു നൽകേണ്ടിവരുന്ന വിലയാണ് അടുത്തതായി മാൻപവർ കോസ്റ്റ് ആണ് നിങ്ങൾ ആളുകളെ നിയമിക്കുന്നുണ്ടെങ്കിൽ അവരെ പാലിക്കേണ്ടി വരും വേണ്ട സൌകര്യങ്ങൾ ഒരുക്കേണ്ടതായി വരും ഇതൊക്കെ ചിലവേറിയതാണ് ഇതുകൂടാതെ ഇൻഫ്രാസ്ട്രക്ച്ചർ കോസ്റ്റ് ഭൂമി വാങ്ങുന്ന കോസ്റ്റ് ഉപകരണങ്ങൾ വാങ്ങുന്ന ചെലവ് എന്നിവയും ഉണ്ട് മെറ്റീരിയൽ കോസ്റ്റ് മാൻപവർ കോസ്റ്റ് എന്നിവയെ വേരിയബിൾ കോസ്റ്റ് എന്നു വിളിക്കുന്നു കാരണം ഇവ ആവർത്തിച്ചു വരുന്ന കോസ്റ്റ് ആണ് അതേസമയം ഇൻഫ്രാസ്ട്രക്ച്ചർ കോസ്റ്റ് ഒരിക്കൽ മാത്രം ഉണ്ടാവുന്നത് കാരണം ഇതിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നു ഇൻഫ്രാസ്ട്രക്ച്ചർ കോസ്റ്റ് കണ്ടെത്താൻ അടിസ്ഥാന സൌകര്യം ഉപയോഗിച്ചപ്പോഴുള്ള ആകെ ഫിക്സഡ് കോസ്റ്റ്നെ യൂണിറ്റ്ൻറെ സംഖ്യകൊണ്ട് ഹരിച്ചാൽ മതി ഇനി ഓട്ടോമേഷൻ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ഓട്ടോമേഷന് മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാനാവും ഉദാഹരണത്തിന് ഷീറ്റ് മെറ്റൽ വ്യവസായം എടുക്കുക നമുക്ക് വ്യക്തമായി പ്രോഗ്രാം ചെയ്ത ഒരു ഓട്ടോമേറ്റഡ് മെഷീൻ ഉണ്ടെങ്കിൽ ഒരു വലിയ ഷീറ്റിൽ നിന്നും ചെറിയ കഷണം ഷീറ്റുകൾ മുറിച്ച് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടം വളരെ ചെറിയ തോതിൽ ആകും മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഗുണനിലവാരം ഇല്ലാതെ തള്ളിക്കളയുന്ന ഉൽപ്പന്നങ്ങൾ കുറയുകയും മെറ്റീരിയൽ കോസ്റ്റ് ഇതുവഴി കുറയുകയും ചെയ്യുന്നു അടുത്തത് എനർജി കോസ്റ്റാണ് തീർച്ചയായും ഓട്ടോമേഷൻ എനർജി കോസ്റ്റിനെ അനുകൂലമായാണ് ബാധിക്കുന്നത് അവശ്യം വേണ്ടതായിട്ടുള്ള ഒപ്റ്റിമൽ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കാനാണ് ഓട്ടോമാറ്റിക് മെഷീൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ എനർജി കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും അടുത്തത് മാൻപവർ കോസ്റ്റാണ് ഇത് സ്വാഭാവികമായും കുറയുന്നു ഓട്ടോമേഷൻറെ മുഖ്യ ലക്ഷ്യം തന്നെ മനുഷ്യാധ്വാനം കഴിവതും കുറയ്ക്കുക എന്നതാണ് ഇനി ഇൻഫ്രാസ്ട്രക്ച്ചർ കോസ്റ്റിൻറെ കാര്യമെടുത്താൽ അത് ഒരു നിശ്ചിത സമയത്ത് വളരെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നതിനാൽ ഇതും കുറയ്ക്കാൻ സാധിക്കും ഇൻഫ്രാസ്ട്രക്ച്ചർ കോസ്റ്റ് പർ യൂണിറ്റ് ലഭിക്കാൻ ആകെ ഇൻഫ്രാസ്ട്രക്ച്ചർ കോസ്റ്റ്നെ യൂണിറ്റുകളുടെ നമ്പർ കൊണ്ടു ഹരിച്ചാൽ മതി ഓട്ടോമേഷൻ വഴി നമ്പർ ഓഫ് യൂണിറ്റ്സ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഓട്ടോമേഷൻ സ്ഥാപിക്കാൻ മികച്ച ഉപകരണങ്ങളുടെ ആവശ്യകത ഉണ്ട് അതുവഴി ഇൻഫ്രാസ്ട്രക്ച്ചർ കോസ്റ്റ് വർദ്ധിക്കുന്നു എന്നിരിക്കിലും യൂണിറ്റുകളുടെ നമ്പർ കൂടി വലിയതോതിൽ വർദ്ധിക്കും എന്നതിനാൽ ഇൻഫ്രാസ്ട്രക്ച്ചർ കോസ്റ്റ് പർ യൂണിറ്റ് കുറയുന്നു ഓട്ടോമേഷൻ ഉപയോഗിച്ച് നമുക്ക് പലതരത്തിൽ ചെലവു കുറയ്ക്കാം എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തതായി പ്രൊഡക്ഷൻ വോളിയം അഥവാ ഉൽപ്പാദനത്തിൻറെ അളവിലേക്ക് വരാം നിങ്ങൾക്ക് നിർമാണം നടത്താൻ മതിയായ മെറ്റീരിയൽ മാൻ പവർ ഡിമാൻഡ് അഥവാ ആവശ്യകത എന്നിവയെല്ലാം ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങൾ എങ്ങനെ പ്രൊഡക്ഷൻ വോളിയം വർദ്ധിപ്പിക്കും ഓട്ടോമേഷൻ പല കാരണങ്ങൾ കൊണ്ട് പ്രൊഡക്ഷൻ വോളിയം വർദ്ധിപ്പിക്കുന്നു ഒരു യൂണിറ്റ് ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള സമയം കുറയ്ക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ വോളിയം വർദ്ധിപ്പിക്കാൻ സാധിക്കും നിർമ്മാണത്തിന് ആകെ ആവശ്യമുള്ള സമയം ഇങ്ങനെ തരം തിരിക്കാവുന്നതാണ് പ്രൊഡക്ഷൻ ടൈം അഥവാ നിർമ്മാണ സമയം മെറ്റീരിയൽ ഹാൻഡ്ലിങ് ടൈം അഥവാ സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്ന സമയം ഒരു യൂണിറ്റ് നിർമിക്കാൻ സാമഗ്രികൾ മെഷീനിൽ നിന്നും മെഷീന്ലേക്ക് കൊണ്ടു പോകേണ്ടതുണ്ട് എത്രയും വേഗത്തിൽ സാമഗ്രികൾ മെഷീനിൽ എത്തുന്നു വോ അത്രയും വേഗത്തിൽ ഉൽപ്പന്നം മെഷീനിൽ നിന്ന് എടുക്കാൻ സാധിക്കും ഇങ്ങനെ സമയം ലാഭിക്കാൻ സാധിക്കും നമുക്ക് വലിയ മെഷീനുകൾ കൈകാര്യം ചെയ്യാനാവും എന്നതിനാൽ പലതരം നിർമാണ ഘടകങ്ങൾ കുറയ്ക്കാൻ ആകുന്നു അങ്ങനെ പ്രൊഡക്ഷൻ ടൈം കുറയുന്നു ഓട്ടോമേഷൻ ഉപകരണങ്ങളുപയോഗിച്ച് ഐഡിൽ ടൈം അഥവാ നിഷ്ക്രിയ സമയം കുറയ്ക്കാനാകും എന്നതിനാൽ മെറ്റീരിയൽ ഹാൻഡ്ലിങ് ടൈം കുറയുന്നു അതുകൊണ്ടുതന്നെ പരമാവധി പ്രാപ്തി ഉപയോഗപ്പെടുത്താൻ സാധിക്കും മെഷീനിലെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി ഇരിക്കുന്നത് കുറയ്ക്കാം എന്നതിനാലും അവയെ എല്ലായിപ്പോഴും പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കാം എന്നതിനാലും ഗവേഷണത്തിൻറെ ഈ മേഖലയെ റിസോഴ്സ് ഷെഡ്യൂളിഇംഗ് എന്ന് വിളിക്കുന്നു അവസാനമായി ഓട്ടോമേറ്റഡ് ക്വാളിറ്റി അഷ്വറൻസ് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ക്വാളിറ്റി അഷ്വറൻസ് ടൈം അഥവാ ഗുണനിലവാരം ഉറപ്പാക്കുന്ന സമയം വളരെ കുറയ്ക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ക്വാളിറ്റി അഷ്വറൻസ് ടൈം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റിനായി നേരത്തെ അവലംബിച്ചിരുന്ന രീതി ഒരു കൂട്ടം ഉൽപന്നങ്ങളിൽനിന്നും ചിലതുമാത്രം തിരഞ്ഞെടുത്തു അതുമാത്രം പരിശോധിച്ച് മുഴുവൻ ഉത്പന്നങ്ങളും ഗുണനിലവാരമുള്ളതായി പ്രഖ്യാപിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് അത് മാറി ആളുകൾ ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നിരാകരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഉദാഹരണത്തിന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ ലൈൻസ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി കാണാനിടയായി ഈ റെയിൽവേ ലൈൻസ് അപകടങ്ങൾ തടയണം എന്നുള്ളതിനാൽ ഓരോ റെയിലും പിളർപ്പ് കണ്ടെത്താൻ അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഉപകരണം വഴി ടെസ്റ്റ് ചെയ്യുന്നതായി കാണാൻ സാധിച്ചു ഈ ഉപകരണം ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ ഓരോ റെയിലും പിളർപ്പ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വളരെയധികം സമയം ആവശ്യമായിവരും അതിനാൽ തന്നെ ക്വാളിറ്റി അഷ്വറൻസ് ടൈം കുറയ്ക്കാനും ഒരു നിശ്ചിത സമയത്ത് ഇത് പ്രൊഡക്ഷൻ വോളിയം വളരെയധികം വർദ്ധിപ്പിക്കാനും സാധിക്കും അടുത്തതായി ഓട്ടോമേഷൻ പ്രൈസ് അല്ലെങ്കിൽ നിരക്കിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം പ്രൈസ് ഡിമാൻഡ് മായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം സാമ്പത്തികശാസ്ത്രത്തിൽ പഠിച്ചിട്ട് ഉണ്ടാകും ആവശ്യകതയെ ഇവിടെ മാത്രമാണ് നാം പരിഗണിക്കുന്നത് ഇതുവരെ നാം ചിന്തിച്ചിരുന്നത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യകത ഉണ്ടെ ന്നും നമുക്ക് എന്തും വിൽക്കാൻ സാധിക്കും എന്നാണ് ഒരു വസ്തുവിൻറെ നിരക്ക് വർദ്ധിപ്പിച്ചാൽ അതിൻറെ ആവശ്യകത കുറയുന്നതായി കാണാൻ സാധിക്കും എന്തുകൊണ്ടെന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ വർധിപ്പിച്ച വില താങ്ങാൻ ആവുകയുള്ളൂ മറിച്ച് വസ്തുവിൻറെ നിരക്ക് കുറയുകയാണെങ്കിൽ ആവശ്യകത കൂടുന്നതായി കാണപ്പെടുന്നു ഇതാണ് നാം നിത്യജീവിതത്തിൽ ഇന്നു കാണുന്നത് വില കുറയുന്നതോടെ ആവശ്യകത വർദ്ധിക്കുന്നു നാം പ്രൈസ് അഥവാ നിരക്ക് കുറയ്ക്കുമ്പോൾ ഡിമാൻഡ് അഥവാ ആവശ്യകത വർദ്ധിക്കുന്നതിന് കാരണംപ്രൈസ് മൈനസ് കോസ്റ്റ് ഇൻടു ഡിമാൻഡ് സമവാക്യം മൊത്തത്തിൽ വർദ്ധിക്കുന്നു എന്നതാണ് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുകയും സമവാക്യത്തിൽ ഡിമാൻഡ് ഗുണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നു അതിനാൽ പ്രൈസ് കുറച്ചു ഡിമാൻഡ് കൂട്ടി ലാഭമുണ്ടാക്കാൻ സാധിക്കും ഇനി കോസ്റ്റ് കൂടി കുറയ്ക്കുകയാണെങ്കിൽ പ്രൈസ് മൈനസ് കോസ്റ്റിന് മാറ്റമുണ്ടാകുന്നില്ല പക്ഷേ ആവശ്യകത വർദ്ധിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാൻ കഴിയുക നേരെമറിച്ച് നിങ്ങളുടെ ഉൽപ്പന്നം വളരെ നല്ല ഗുണനിലവാരം ഉള്ളതാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യകത ഉണ്ടാവുകയും കൂടിയ നിരക്കിൽ വിൽക്കാൻ സാധിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഒരു ടിവി കടയിൽ ഒരു ബ്രാൻഡ് കൂടിയ വിലയിൽ ടിവി വിൽക്കുന്നു എന്ന് വിചാരിക്കുക മറ്റൊരു ബ്രാൻഡ് ആ വിലയുടെ മൂന്നിലൊന്ന് വിലയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചാലും ഉപഭോക്താക്കൾ ആദ്യത്തെ ബ്രാൻഡ് ആയിരിക്കും ഇഷ്ടപ്പെടുക ആദ്യത്തെ ബ്രാൻഡിന് കൂടുതൽ ഗുണനിലവാരം ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ വിലയും വർദ്ധിപ്പിക്കാൻ സാധിക്കും ആവശ്യകത മാറ്റമില്ലാതെ തുടരും അതുകൊണ്ട് ലാഭം വർധിപ്പിക്കാനായി നിങ്ങൾക്ക് ഒന്നുകിൽ നിരക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ ഗുണനിലവാരം വർധിപ്പിക്കാം രണ്ടായാലും കൂടുതൽ നിരക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും അതാണ് ഗുണനിലവാരത്തിന് ഇന്ന് ഇത്രയും പ്രാധാന്യം ലഭിക്കുന്നത് ഇനി ഉൽപ്പന്നത്തിന് ഗുണനിലവാരം എവിടുന്നാണ് വരുന്നത് അത് ഗുണനിലവാരം അതിനുപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്നും അതേപോലെ നിർമ്മാണ പ്രക്രിയയിൽ നിന്നുമാണ് വരുന്നത് നിർമ്മാണ പ്രക്രിയ അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ് ഓട്ടോമേഷൻ നിർമ്മാണ പ്രക്രിയയെ സാരമായി ബാധിക്കുന്നു ഉദാഹരണത്തിന് ഒരു കംപ്യൂട്ടർ നിർമ്മിക്കുമ്പോൾ ഓട്ടോമേഷൻ ഉപയോഗിച്ചു ഡയമെൻഷൻ ടോളറൻസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും പിന്നെ ഏതൊരു പ്രക്രിയക്കും കൺട്രോൾ അഥവാ നിയന്ത്രണം ആവശ്യമാണ് അതായത് നിങ്ങൾക്ക് ഒരു നല്ല കാർ ഉണ്ടെങ്കിലും അത് നന്നായി ഓടിക്കേണ്ടതാണ് ഇവിടെ ഡ്രൈവിംഗ് നെ കണ്ട്രോൾ എന്ന് പറയാം അതിനാൽ ഓട്ടോമേഷൻ മികച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്നിവ ഉപയോഗിച്ച് വളരെ മികച്ച കൺട്രോൾ അൽഗോരിതം ഉണ്ടാക്കാനും അതുവഴി ഗുണനിലവാരം ഉറപ്പുവരുത്താനും സാധിക്കും അതിനാൽ ഓട്ടോമേഷൻ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു എന്നും അതുവഴി ലാഭം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നും പറയാം